ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം ജപ്പാനിലെ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിൽ അടുത്തിടെ നടന്ന നാലാമത്തെ ഉച്ചകോടിയായ GADRI ഗ്ലോബൽ അല്ലിയൻസ് ഓഫ് ഡിസാസ്റ്റർ റിസർച്ച് ഇന്സ്ടിട്യൂറ്റ്സ് ൽ നടന്ന ചർച്ചകളുടെ സംഗ്രഹമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിലെ ഒരാളുടെ റിപ്പോർട്ടിംഗ് അംഗങ്ങളിൽ ഒരാളാണ് ഞാൻ റിസ്ക് ഹെൽത്തിന്റെയും ഡിആർഎമ്മിന്റെയും സാമൂഹിക മാനം വ്യത്യസ്ത ധാരണകൾ ഈ പ്രത്യേക വശത്തെ എങ്ങനെ സംഗ്രഹിച്ചു എന്നതിനെക്കുറിച്ചും അൽപ്പം കൂടി ഗാഡ്രിയെ കുറിച്ചും ഞാൻ സംക്ഷിപ്തമായി ചർച്ച ചെയ്യും വാസ്തവത്തിൽ ഡോ ശുഭജ്യോതി Dr Subhajyoti ഗാഡ്രിയെക്കുറിച്ചും അതിന്റെ സംരംഭങ്ങളെക്കുറിച്ചും ഒരു പ്രഭാഷണത്തിൽ ഇതിനകം പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ മാർച്ച് 13 മുതൽ 15 വരെ അടുത്തിടെ നടന്ന ഗാഡ്രി ഉച്ചകോടിയെ കുറിച്ചും ഈ പ്രത്യേക ഗ്രൂപ്പിനെ ഞാൻ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നു അപകടസാധ്യത ആരോഗ്യം ഡിആർഎം എന്നിവയുടെ സാമൂഹിക തലത്തിൽ ഇവിടെ 2 വിഷയങ്ങളുണ്ട് ഒന്ന് അപകടസാധ്യതയുടെ സാമൂഹിക തലം ആരോഗ്യം ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഡിപിആർഐ ഡിസാസ്റ്റർ പ്രിവൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാർച്ച് 13 ന് നടന്ന നാലാമത് ആഗോള ഉച്ചകോടിയിലെ 1ഡിയുടെ ഗ്രൂപ്പ് ചർച്ചയിലാണ് ഇത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ശുഭജ്യോതി സമദാറിന്റെയും ആൻഡ്രൂ കോളിൻസിന്റെയും അധ്യക്ഷതയിൽ യുചി ഓനോയും ആരോഗ്യകാര്യങ്ങൾക്കായി വിർജീനിയ മുറെയും ഉപാധ്യക്ഷന്മാരായി റിപ്പോർട്ടർമാരായി ഞാൻ സതീഷ് പശുപുലേറ്റിയും റോബിൻ ഈവ് മില്ലറും വാസ്തവത്തിൽ നമ്മൾ GADRI യെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി ഇത് ഗവേഷണവും ദുരന്ത നിവാരണവും ദുരന്തവുമായി ബന്ധപ്പെട്ട ഗവേഷണവും നടത്തുന്ന എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഒരു വേദിയായി മാറിയിരിക്കുന്നു അതിനാൽ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഒത്തുചേരാനും പങ്കിടാനുമുള്ള ഒരു വേദിയാണിത് അറിവും നയ പരിശീലനവും സിദ്ധാന്തവും അറിയിക്കുന്നു അതിനാൽ ആ രീതിയിൽ ഇത് ഒരു പ്രധാന പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഈ ഗവേഷകരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ DPRI തീവ്രശ്രമം നടത്തുന്നു അതിലൂടെ നമുക്ക് എങ്ങനെ DRR സമ്പ്രദായങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം അതിനാൽ യഥാർത്ഥത്തിൽ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ മൂന്നാം ആഗോള ഉച്ചകോടി ഞങ്ങൾ അതിനെ GSRIDRR എന്ന് വിളിക്കുന്നു ഇവിടെയാണ് ശാസ്ത്രത്തിനും നയരൂപീകരണത്തിനും ബ്രിഡ്ജിംഗ് പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് 19 മുതൽ 21 വരെ സമാനമായ സമയമായിരുന്നു അതേസമയം ഈ പ്രോഗ്രാമിന്റെ ഭാഗവും കൂടാതെ ചർച്ചയിൽ വരുന്ന വിവിധ തല്പരകക്ഷികൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്നിവരുമായി നിരവധി ചർച്ചകളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ ചില വിഷയങ്ങളിൽ ചർച്ച ചെയ്തു അവസാനം ഞങ്ങളുടെ കണ്ടെത്തലുകൾ അവിടെയുള്ള സമൂഹത്തിനും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ ആഗോള ഉച്ചകോടിയായ നാലാമത്തെ ഉച്ചകോടിയിൽ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഫലപ്രാപ്തിയും പ്രസക്തിയും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് വിഷയം അപകടസാധ്യതയുടെയും ആരോഗ്യത്തിന്റെയും സാമൂഹിക മാനം ഡിആർഎം എന്നിവയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു അതിനാൽ ഞാനും റോബിനും റിപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ സെഷനിൽ അധ്യക്ഷനായിരുന്നത് ശ്രീകാന്തും പാനൽ ചർച്ചകളിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിച്ചു അതിനാൽ അപകടസാധ്യതകളുടെ സാമൂഹിക നിർമ്മാണത്തെക്കുറിച്ചുള്ള ഗവേഷണം ഫലപ്രദമായ ഡിആർആറിനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു ഈ സെഷന്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും അപകടസാധ്യതയെക്കുറിച്ചുള്ള ധാരണ എങ്ങനെ മികച്ച രീതിയിൽ പ്രചരിപ്പിക്കാനും പങ്കാളികൾക്കിടയിൽ ചർച്ച ചെയ്യാനും അപകടസാധ്യതയുടെ സാമൂഹിക മാനം പങ്കിടാൻ കഴിയുമെന്നും പരിഗണിക്കുക DRR ന്റെ പ്രതിവിധികൾ രൂപകൽപന ചെയ്യാൻ റിസ്ക് എങ്ങനെ സഹായിക്കുമെന്ന് മനസിലാക്കാൻ ദുരന്തസാധ്യതയുടെ സാമൂഹിക മാനവുമായി ബന്ധപ്പെട്ട ഭാവി ഗവേഷണ ദിശകൾ പ്രതിഫലിപ്പിക്കുന്നതിനും റിപ്പോർട്ടുചെയ്യുന്നതിനും അതിനാൽ അഭിസംബോധന ചെയ്യേണ്ട പ്രധാന ചോദ്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു സമൂഹത്തിനുള്ളിലെ അപകടങ്ങളും അപകടസാധ്യതകളും ദുരന്തങ്ങളും നിലവിൽ എത്രത്തോളം അറിയപ്പെടുന്നു അപകടസാധ്യതകളുടെ സാമൂഹിക നിർമ്മാണം DRR ന് എങ്ങനെ ഫലപ്രദമാകും അപകടസാധ്യതയെക്കുറിച്ചുള്ള മെച്ചപ്പെട്ട ധാരണ വ്യത്യസ്ത ഡിആർആർ ഓഹരി ഉടമകളെ എങ്ങനെ അറിയിക്കാം അപകടസാധ്യതയുടെ സാമൂഹിക മാനങ്ങൾ മനസ്സിലാക്കുന്നത് DRR നെ എങ്ങനെ സഹായിക്കും അതിനാൽ ഇതായിരുന്നു ഞങ്ങളുടെ പ്രധാന പ്രധാന ചോദ്യങ്ങൾ അതിനുശേഷം ഓരോ ഗ്രൂപ്പുകൾക്കകത്തും സമഗ്രമായ ചർച്ചകൾ നടക്കുന്നു ഞങ്ങൾ വിവിധ പങ്കാളികളിൽ നിന്ന് വ്യത്യസ്ത വീക്ഷണങ്ങൾ ശേഖരിക്കുന്നു തുടർന്ന് ഈ ഒരു ലളിതമായ ഡയഗ്രാമിൽ ഒരു ആശയപരമായ ധാരണ സമാഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അപകടസാധ്യതയുടെ നമ്പർ വൺ സന്ദർഭം അപകടസാധ്യതയുടെ സന്ദർഭം എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു അർത്ഥമുണ്ട് പ്രത്യേകിച്ച് അരികിൽ താമസിക്കുന്ന ആളുകൾ എഡ്ജ് ഇവിടെ ഞാൻ പ്രതികരിക്കുന്നത് പർവതനിരകളിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ചല്ല എന്നാൽ ഈ ദുരന്തസാധ്യതയ്ക്ക് സാധ്യതയുള്ള കൂടുതൽ ദുർബലമായ അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ദുരന്തം ഒരു സ്വാഭാവിക സന്ദർഭം മാത്രമല്ല അത് സാമൂഹികമായ ദുർബ്ബലതയാണ് അത് അവരെ എങ്ങനെ അപകടത്തിലാക്കുന്നു അപകടം അവരെ എങ്ങനെ ഒരു ദുരന്തമാക്കി മാറ്റുന്നു അവിടെയാണ് HVR അതിനാൽ ദുരന്തം ഒരു സാമൂഹിക നിർമ്മിതിയാണ് കാരണം വിഭവങ്ങൾ വൈദഗ്ധ്യം കഴിവുകൾ എന്നിവയുടെ അസമമായ വിതരണമുണ്ട് കാരണം സൌത്ത് അമേരിക്കയിൽ ഉള്ള ഒരാളും ജപ്പാനിൽ ഉള്ള ഒരാളും രണ്ടുപേരും ഒരേ തീവ്രതയിൽ ഭൂകമ്പം അനുഭവിച്ചാൽ അവർ എങ്ങനെ തയ്യാറെടുക്കുന്നു എങ്ങനെ തയ്യാറെടുക്കുന്നു അപ്പോൾ ഇവിടെ എന്ത് ആഘാതം എന്ത് തരം ആഘാതം അതിനാൽ അപകടങ്ങൾ നൽകുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവുകളോട് ഓരോ കമ്മ്യൂണിറ്റിയും അവരുടെ കഴിവുകളോട് എങ്ങനെ പ്രതികരിച്ചുവെന്ന് എല്ലാം പറയുന്നു ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ് ഞങ്ങൾ പലപ്പോഴും സാമൂഹിക തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് വളരെ ദാർശനികമായ ഒരു വശമാണ് ഞങ്ങളോടും മറ്റുള്ളവരോടും നിങ്ങളോടും ഞാൻ എങ്ങനെ ഉത്തരവാദിയാണ് അതിനാൽ നമ്മൾ അപകടസാധ്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഞാൻ എന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് ഞാനാണ് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മളുമായി എങ്ങനെ ബന്ധപ്പെടുന്നു ഒരു വലിയ ഗ്രൂപ്പുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ആഗോള സമൂഹത്തെ മറ്റൊരു വീക്ഷണകോണിൽ എങ്ങനെ കാണാനാകും റിസ്ക് ഫാക്ടർ പരിഗണിക്കാനും സംഭാവന നൽകാനും യഥാർത്ഥത്തിൽ നമുക്ക് കഴിയുന്നത് എങ്ങനെയെന്ന് അറിയുക നോളഡ്ജ് നമ്മൾ അറിവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രാദേശിക അറിവ് അപകടസാധ്യതയെ എങ്ങനെ മനസ്സിലാക്കുന്നു കാരണം ശാസ്ത്രീയ അറിവ് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നാൽ പ്രാദേശിക അറിവ് എങ്ങനെ അപകടസാധ്യത മനസ്സിലാക്കി അപകടസാധ്യത എങ്ങനെ മനസ്സിലാക്കുന്നു ഇത് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം കാരണം ശാസ്ത്ര സമൂഹം എല്ലായ്പ്പോഴും പ്രാദേശിക അറിവുകളെ തുരങ്കം വയ്ക്കുന്നു ഒകൾ ഉൾപ്പെടുന്ന പല കേസുകളും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളല്ലെന്ന് അവർ എപ്പോഴും വിശ്വസിക്കുന്നു ആളുകൾ ഇതിനകം നിരവധി വർഷങ്ങളായി ജീവിച്ചിരുന്നതിനെ തുരങ്കം വയ്ക്കാൻ അവർ എപ്പോഴും ശ്രമിക്കുന്നു നിങ്ങൾ നല്ല രീതിയിലല്ലെന്ന് അവർ പറഞ്ഞു അതിനാൽ നമുക്ക് മറ്റൊരു വഴി അടിച്ചേൽപ്പിക്കാം പ്രാദേശിക വിജ്ഞാന സംവിധാനങ്ങൾ എങ്ങനെയാണ് അപകടസാധ്യത കുറയ്ക്കുന്നത് ഈ പ്രാദേശിക അറിവ് എങ്ങനെയാണ് അപകടസാധ്യത കുറയ്ക്കുന്നതെന്നും ഒരാൾക്ക് ഈ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നിങ്ങൾക്കറിയാം കൂടാതെ സ്വീകാര്യവും അസ്വീകാര്യവുമായ അപകടസാധ്യതകൾക്കിടയിൽ വളരെ കുറച്ച് മാത്രമേ അറിയൂ കാരണം എനിക്ക് സ്വീകാര്യമായത് മറ്റൊരു സാംസ്കാരിക അല്ലെങ്കിൽ വികസന പശ്ചാത്തലത്തിൽ നിന്നുള്ള മറ്റ് വ്യക്തിക്ക് സ്വീകാര്യമായേക്കില്ല അതിനാൽ സ്വീകാര്യമായത് എന്താണെന്നും ആർക്ക് എന്തിലൂടെ എന്തിൽ നിന്ന് ഏതാണ് അസ്വീകാര്യമായ അപകടസാധ്യതയെന്നും പരിശോധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അത് മനസ്സിലാക്കിയേക്കാം കുറവ് രേഖപ്പെടുത്തുകയും കൈമാറുകയും ചെയ്യുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ DRR ഒരു സംസ്കാരമായി അവതരിപ്പിക്കുന്നു അതിനാൽ DRR നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അത് ഒരു ദിവസം കൊണ്ട് മാത്രം സംഭവിക്കില്ല എന്നാൽ ഒരു സ്കൂൾ തലത്തിൽ ഈ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ വ്യത്യസ്ത വിദഗ്ധരായ രോഹിത് ജിഗ്യാസു വാദിച്ചു ഒരു സ്കൂൾ തല വിദ്യാഭ്യാസത്തിൽ ഇത് ദുരന്തസാധ്യത കുറയ്ക്കണമെന്ന് മറ്റനേകം വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിച്ചു അതിലൂടെ കുട്ടികൾക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എങ്ങനെ അതിന് തയ്യാറെടുക്കാം എന്ന തിരിച്ചറിവ് കുട്ടികൾക്ക് മനസ്സിലാകും കൂടാതെ ഇത് അവരുടെ ഇടയിൽ സംവേദനക്ഷമതയും കൊണ്ടുവരുന്നു തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള അറിവ് മെച്ചപ്പെടുത്തുന്നു എവിടെയാണ് നാം തെളിവുകളെ ആശ്രയിക്കേണ്ടത് ഇമ്പ്ലിമെന്റഷൻ ഗ്യാപ്പുകളും വെല്ലുവിളികളും ഉണ്ടായിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്കിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു മാനം കൂടിയുണ്ട് നയങ്ങളുണ്ട് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അവിടെ ഞങ്ങൾക്ക് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട് എന്നാൽ പ്രാദേശിക തലത്തിൽ അത് നടപ്പിലാക്കുന്നതിലും എടുത്തുകളയുന്നതിലും ഉള്ള വെല്ലുവിളികൾ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കൂടാതെ ദേശീയ പ്രാദേശിക പ്രാദേശിക തലത്തിലുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക്കൾ ചിലപ്പോൾ പരസ്പരം വിരുദ്ധമാണ് ചിലപ്പോൾ അവയ്ക്ക് വൈരുദ്ധ്യമുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ പ്രാക്ടീസ് ചെയ്യാൻ ഒരു നയമുണ്ട് ഏത് നയത്തിന്റെ വക്താക്കളാണെന്നും ഏത് സമ്പ്രദായമാണെന്നും അത് എല്ലായ്പ്പോഴും ഒരു വിടവാണെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇത് ഒരു വശമാണ് എന്നാൽ മറ്റ് വശങ്ങൾ നമ്മൾ ധാരണകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നാമതായി ഒരു അപകടസാധ്യതയെക്കുറിച്ചുള്ള ധാരണ തന്നെ വളരെ ആത്മനിഷ്ഠമാണെന്ന് നിങ്ങൾക്കറിയാം കാരണം അത് ആരാണ് ശരിയായി മനസ്സിലാക്കുന്നതെന്ന് നിർവചിച്ചിരിക്കുന്നു നമ്മൾ റിസ്കിനെപ്പറ്റി പറയുന്നു ആർക്ക് റിസ്ക് എന്തിനു റിസ്ക് എപ്പോൾ റിസ്ക് അത് എങ്ങനെ അപകടസാധ്യതയായി മാറുന്നു അതിനാൽ ഈ ചോദ്യങ്ങളെല്ലാം വളരെ ആത്മനിഷ്ഠമായ സ്വഭാവമാണ് അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് രാഷ്ട്രം മുതൽ രാഷ്ട്രം വരെ സംസ്കാരം മുതൽ സംസ്കാരം വരെ ഇവിടെ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് എൻജിഒകൾ അപകടസാധ്യത എങ്ങനെ കാണുന്നു ശാസ്ത്ര സമൂഹം അപകടസാധ്യത എങ്ങനെ കാണുന്നു സമൂഹം എങ്ങനെ അപകടസാധ്യത മനസ്സിലാക്കി പ്രാദേശിക സർക്കാരുകൾ അപകടസാധ്യത എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ അതിനാൽ ഇവയെല്ലാം ഒരു ധാരണയായി അഭിസംബോധന ചെയ്യുന്നതിൽ വിവിധ വെല്ലുവിളികൾ ഉണ്ട് ആശയവിനിമയം ആശയവിനിമയം എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ തിരശ്ചീന തലത്തിൽ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ കമ്മ്യൂണിറ്റികളിൽ ഉടനീളം വിടവുകൾ ഉണ്ട് കൂടാതെ വിദ്യാഭ്യാസം എങ്ങനെ ചിന്തിക്കുന്നുവെന്നും ഗവേഷണം എങ്ങനെ ചിന്തിക്കുന്നുവെന്നും നയം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലും വിടവുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിദ്യാഭ്യാസം ഗവേഷണം നയം പ്രയോഗം എന്നിവയിൽ ഒരു ലോജിക് ഗ്യാപ്പ് നെറ്റ്വർക്ക് നിലവിലുണ്ട് കമ്മ്യൂണിറ്റി കോർഡിനേഷൻ കമ്മ്യൂണിറ്റി കോർഡിനേഷനെ പറ്റിപറയുമ്പോൾ കമ്മ്യൂണിറ്റിയും കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള ഏകോപനം ഈ രീതികളുടെ ഒരു ഭാഷയുണ്ട് കമ്മ്യൂണിറ്റിയും കമ്മ്യൂണിറ്റികളും അച്ചടക്കം അച്ചടക്കമില്ലാത്തത് ഇതിനുള്ളിൽ ഏകോപനത്തിന്റെ അഭാവമുണ്ട് എല്ലാ വിഭാഗങ്ങളിലും ഏകോപനത്തിന്റെ അഭാവമുണ്ട് കൂടാതെ വിവിധ സ്പേഷ്യൽ കഴിവുകളിലും അവതരണ രീതിയിലും സമന്വയ പ്രശ്നങ്ങളുണ്ട് അത് എങ്ങനെ അവതരിപ്പിക്കുന്നു കാരണം വികസനത്തിനുള്ള ആശയവിനിമയം എങ്ങനെ വളരെ പ്രധാനമാണ് നിങ്ങൾ ചില വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പ്രാദേശിക കമ്മ്യൂണിറ്റികൾക്ക് നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു അവർ അത് എങ്ങനെ സ്വീകരിക്കുന്നു ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലും പ്രാദേശിക സർക്കാരുകളിലും നിങ്ങൾ ആ ഏകോപനം എങ്ങനെ കൊണ്ടുവരുന്നു അതിനാൽ എല്ലാം അവതരണ രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഞങ്ങൾ എല്ലാവരും സഹപ്രവർത്തനത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആഗോള സമൂഹത്തിന് പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി എങ്ങനെ സഹകരിക്കാമെന്നും ദേശീയവും പ്രാദേശികവും പ്രാദേശികവുമായവയുമായി അവർക്ക് എങ്ങനെ സഹകരിക്കാമെന്നും സഹപ്രവർത്തനം പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു ശാസ്ത്ര സമൂഹമാണെങ്കിലും ഒരു രാഷ്ട്രീയ സമൂഹമാണെങ്കിലും ഈ വിവിധ വിഭാഗങ്ങൾക്ക് എങ്ങനെ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയും അങ്ങനെ അവർക്ക് പരസ്പരം സഹകരിക്കാനും നിങ്ങൾക്ക് DRR അറിയാൻ പ്രവർത്തിക്കാനും കഴിയും അതിനാൽ ഈ മുഴുവൻ സ്കീമാറ്റിക് ഡയഗ്രവും ഭാഗഭാക്കാകുന്നതും പങ്കാളിത്തം സ്ഥാപിക്കുന്നതും അവിടെയാണ് ആഗോള അഭിനേതാക്കളുമായും ആഗോള ഏജൻസികളുമായും ഉള്ള ഈ പങ്കാളിത്തം പ്രാദേശിക ഏജൻസികളിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നിങ്ങൾക്കറിയാം ഒരു അക്കാദമിക് ഇന്സ്ടിട്യൂഷൻസ് റിസേർച് ഇന്സ്ടിട്യൂഷൻസ് പ്രാക്ടീസ് ആൻഡ് പോളിസി ലെവൽ ഇന്സ്ടിട്യൂഷൻസ് എന്നിവയുമായി എങ്ങനെ പങ്കാളിത്തം ഉണ്ടാക്കാം അതിനാൽ ആശ്രിതത്വത്തിനെതിരായി സ്വയം വിശ്വാസ്യതയിൽ യഥാർത്ഥത്തിൽ ഊന്നൽ നൽകുന്ന ഒരു കേന്ദ്രത്തിൽ ആളുകളെ സ്വയം ഉൾപ്പെടുത്തുന്നത് ഇവിടെയാണ് അതിനാൽ വിശ്വാസത്തെ മെച്ചപ്പെടുത്തുന്ന ഈ പങ്കാളിത്ത സമീപനങ്ങളിലൂടെ നമ്മൾ സ്വയം വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന നിമിഷം ഇത് കമ്മ്യൂണിറ്റികൾക്കിടയിൽ മാത്രമല്ല ഗവൺമെന്റുകൾക്കും പ്രാദേശിക സർക്കാരുകൾക്കും ഏജൻസികൾക്കും കമ്മ്യൂണിറ്റികൾക്കും ഇടയിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ തീമാറ്റിക് ഗ്രൂപ്പ് നൽകിയ ധാരണ ഇതാണ് നമ്മൾ ആരോഗ്യ വശത്തെക്കുറിച്ച് നോക്കുന്ന അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നു അവിടെ ഒന്നാമതായി ഇവയുടെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ പ്രത്യേകിച്ച് ഒരു ദുരന്ത സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം ഒന്ന് പ്രത്യക്ഷവും പരോക്ഷവുമായ അപകടസാധ്യതകളാണ് കാരണം നമുക്ക് അറിയാവുന്നത് ചില അപകടസാധ്യതകളാണെങ്കിലും ആരോഗ്യപരമായ വശത്തിൽ ഉറപ്പാണ് നിങ്ങൾക്കറിയാവുന്ന ചില അജ്ഞാത അപകടസാധ്യതകൾ ഞങ്ങൾ നേരിട്ടേക്കാം ഉദാഹരണത്തിന് അറിയപ്പെടുന്നതും അറിയാത്തതുമായ അപകടസാധ്യതകളുടെ അനിശ്ചിതത്വം പോലെയുള്ള പരോക്ഷമായ അപകടസാധ്യതയാണിത് പുതിയൊരു അസുഖം പിറക്കും കാശ്മീരിൽ ഒരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശമുണ്ടെന്ന് സങ്കൽപ്പിക്കുക വെള്ളപ്പൊക്ക സമയയത്ത് ആളുകൾ പലായനം ചെയ്തു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവർ ധാരാളം നടപടികൾ സ്വീകരിച്ചു രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മുഴുവൻ വെള്ളം വറ്റിപ്പോയി പക്ഷേ പിന്നീട് പകർച്ചവ്യാധികളും പ്രാദേശിക രോഗങ്ങളും വെള്ളം വറ്റുമ്പോൾ പടർന്നുപിടിച്ചു പുതിയ രോഗങ്ങൾ വന്നു അതിനാൽ എവിടെയാണ് അത് എപ്പോൾ വരും എങ്ങനെ വരും ഏത് തരത്തിലുള്ള രോഗങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരുതരം അനിശ്ചിതത്വമാണ് അതിനാൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കൂടാതെ ആരോഗ്യം ഡിആർആർ എന്നിവയുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ മനസ്സിലാക്കുന്നതിൽ റിസ്ക് ഏറ്റെടുക്കുന്നതിൽ ഡിസ്സിപ്ലിനറി ഓറിയന്റേഷൻ ഗാപ്സ് ഉണ്ട് അതിനാൽ ഫാർമസ്യൂട്ടിക്കൽ അണ്ടർസ്റ്റാന്ഡിങ് വ്യത്യസ്തമാണ് ഹെൽത്ത് അണ്ടർസ്റ്റാന്ഡിങ് ഉണ്ട് ബയോളോജിക്കൽ അണ്ടർസ്റ്റാന്ഡിങ് വ്യത്യസ്തമാണ് അതിനാൽ വ്യത്യസ്ത ഡിസ്സിപ്ലിൻസ് പരസ്പരം ബന്ധപ്പെടുത്തുന്നില്ല അത് അപകടസാധ്യത മനസ്സിലാക്കുന്നതിൽ അവർ യഥാർത്ഥത്തിൽ എങ്ങനെ ഓറിയന്റുചെയ്യുന്നു എങ്ങനെ പരസ്പരം സഹകരിക്കുന്നില്ല എന്നതിന്റെ ഒരു പ്രധാന വശമാണ് ഇവിടെയും അസമമായ വിഭവ വിനിയോഗവും മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള പ്രവേശനവും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ അല്ലെങ്കിൽ കൂടുതലും സാധ്യതയുള്ള പ്രദേശങ്ങൾ ദരിദ്രരായ ഗ്രാമീണ സമൂഹങ്ങളോ ദാരിദ്ര്യമോ ഉള്ളവരാണ് ഈ ആളുകൾക്ക് എങ്ങനെയാണ് അസമമായ വിഭവ വിഹിതം ഉള്ളത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് അവർക്ക് അടിസ്ഥാന സൌകര്യങ്ങളോ മെഡിക്കൽ സൌകര്യങ്ങളോ പ്രൊഫഷണൽ വൈദഗ്ധ്യമോ കുറവാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് ഒരു വെല്ലുവിളിയാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ സൌകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചവരിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം പിന്നെ കർഷകർ പ്രത്യേകിച്ച് വരൾച്ച വെള്ളപ്പൊക്കമുണ്ടായാൽ പോലും കർഷകരും അപകടസാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അത് ആരോഗ്യ വശത്തിനും ഒരു സംഭാവന നൽകുമെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ മാർക്കറ്റ് പ്രേരിപ്പിക്കുന്ന അപകടസാധ്യത കാരണം മാർക്കറ്റ് ചില മരുന്നുകളുടെ ഉപഭോഗത്തിന് ഊന്നൽ നൽകുന്നുവെന്നോ അല്ലെങ്കിൽ അവ ഒരു പ്രത്യേക ബിസിനസ് മേഖലയെ അതിലേക്ക് തള്ളിവിടുന്നതായോ നിങ്ങൾക്കറിയാം അതിനാൽ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില അപകടസാധ്യതകളും ഉണ്ട് കേസുകളും അവശ്യ വിജ്ഞാന പരമ്പരകളും താരതമ്യം ചെയ്യുന്നതിനുള്ള ഫ്രെയിംവർക്കിന്റെ അഭാവം അതിനാൽ മതിയായ ഫ്രെയിംവർക്ക് ഇല്ല സമഗ്രമായ ധാരണ കാണുന്നതിന് വ്യത്യസ്ത കേസുകളും അറിവും എങ്ങനെ താരതമ്യം ചെയ്യാം ഇപ്പോൾ മറ്റൊരു വശം ആൻറിബയോട്ടിസേഷനും പെസ്റ്റിസൈഡിസേഷനുമാണ് കാരണം ആരോഗ്യമേഖലയിൽ പോലും ചെറിയ പനി വന്നാൽ നിങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ലഭിക്കുന്നു പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ പ്രതിരോധശേഷിയെ നേരിടാനുള്ള സ്വാഭാവിക കഴിവുകൾ എങ്ങനെ കഴിവുകളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ഒരു കാര്യമാണിത് ഇത് ഒരു വ്യക്തിയുടെ പ്രതിരോധശേഷിയെയും കൂടാതെ ഒരു ഗ്രൂപ്പിനെയും ബാധിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നമ്മുടെ ഭക്ഷണത്തിലെ കനത്ത കീടനാശിനികളുടെ ഉപയോഗം അത് യഥാർത്ഥത്തിൽ നമ്മുടെ കോശങ്ങളിലേക്കും അടിസ്ഥാന കോശങ്ങളിലേക്കും എങ്ങനെ തിരികെ പോകുന്നു നമ്മുടെ ജനിതകശാസ്ത്രത്തിൽ ഇത് എങ്ങനെ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രത്യാഘാതങ്ങൾ കൂടിയാണ് മരുന്നുകളുടെ ഗുണനിലവാരവും നിയമപരമായ നിർവ്വഹണവും ഉദാഹരണത്തിന് ഏത് തരത്തിലുള്ള മരുന്നുകൾ എങ്ങനെയാണെന്നതിന്റെ ഗുണനിലവാരവും നിയമപരമായ വശവും നിങ്ങൾക്കറിയാമെന്ന് ഒരാൾക്ക് എങ്ങനെ ഉറപ്പാക്കാം അടുത്തിടെ നിങ്ങൾക്ക് അറിയാവുന്ന പോളിയോ തുള്ളിമരുന്നിൽ പോലും ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിനാൽ കഴിയുന്ന ഒരാൾ അത് ഉറപ്പാക്കുക അടിസ്ഥാന ശുചിത്വ വ്യവസ്ഥകളുടെ അഭാവം നിങ്ങൾക്കറിയാം അതിനാൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ കാര്യത്തിൽ തന്നെ ഒന്നാമതായി ഒന്ന് നമുക്ക് അടിസ്ഥാന ശുചിത്വ വ്യവസ്ഥകൾ ഇല്ല അതിനാൽ ആരോഗ്യവും സുരക്ഷയും ഡിആർആറിന്റെ അവിഭാജ്യ ഘടകമാണ് ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഈ എല്ലാ കാര്യങ്ങളും സംഭാവന ചെയ്യുന്നത് ഇങ്ങനെയാണ് കാരണം ആരോഗ്യത്തിന്റെ ഉയർന്ന പരിധി നമുക്ക് നിർവചിക്കാൻ കഴിയില്ല എന്നാൽ ആരോഗ്യത്തിന്റെ താഴ്ന്ന പരിധി കുറഞ്ഞത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് സുരക്ഷിതത്വത്തിന്റെ താഴ്ന്ന പരിധി അതാണ് എന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് DRR സന്ദർഭം ഞങ്ങൾ മുകളിലെ പോയിന്റിലേക്ക് പുഷ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ കാണേണ്ടതുണ്ട് കൂടാതെ ഒരാൾ സമൂഹത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കേണ്ടതുണ്ട് വിപണിയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുക ഇങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക DRR ലെ ആരോഗ്യത്തിന്റെ ടൈം ഡിമെൻഷൻ അതിനാൽ അത് മുൻകരുതൽ മാത്രമല്ല ദുരന്തസമയത്ത് ഹെൽ ഡിമെൻഷൻ 3 ആഴ്ചയ്ക്ക് ശേഷവും പെട്ടെന്ന് മാറാം ചില അജ്ഞാത അപകടസാധ്യതകൾ ചില നേരിട്ടുള്ള അപകടസാധ്യതകൾ അതിനാൽ ഡിആർആറിൽ ആരോഗ്യത്തിന്റെ ഒരു ടൈം ഡിമെൻഷൻ ഉണ്ട് മറ്റൊരു വശം ആക്സിസിബിൾ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനാകുമോ ഇല്ലയോ എന്നത് പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഈ ഇൻഫ്രാസ്ട്രക്ചറും സേവനങ്ങളും ആക്സസ് ചെയ്യാൻ കഴിയും മൂന്നാമത്തെ ആസ്പെക്റ്റ് ആണ് അക്കൌണ്ടബിൾ നിങ്ങൾ അക്കൌണ്ടബിൾ പറയുമ്പോൾ ഈ ഗുണനിലവാരവും നിയമ ചട്ടക്കൂടുകളും നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ടോ ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ അലോക്കേഷൻസ് എങ്ങനെ അക്കൌണ്ടബിളും അഫൊർഡബിളും ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം അത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം കാരണം വികസ്വര രാജ്യങ്ങളിൽ പ്രൈവറ്റൈസഷൻ ആസ്പെക്ട് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഇവ താങ്ങാൻ കഴിയുമോ ശരിയായ സമ്പ്രദായങ്ങളുടെ വക്താവ് ഒരാൾക്ക് ശരിയായ രീതികളെ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം എന്തുചെയ്യണമെന്നും എന്തുചെയ്യരുതെന്നും നിങ്ങൾക്കറിയാം ഇവിടെയാണ് നമുക്ക് വിവിധ പ്രാദേശികവും ആഗോളവുമായ ഏജൻസികളുമായും ദേശീയ തലത്തിലുള്ള ഏജൻസികളുമായും ബിൽഡ് പാർട്ട്ണർഷിപ്പുകൾ ആവശ്യമുള്ളത് ഈ ശരിയായ സമ്പ്രദായങ്ങൾ എങ്ങനെ വാദിക്കണം പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹങ്ങളിലേക്ക് ഇവ എങ്ങനെ എത്തിക്കാം അതിനാൽ ആരോഗ്യമേഖലയിലും ഈ പങ്കാളിത്തവും ഏകോപനവും വളരെ ആവശ്യമാണ് അതിനാൽ അപകടസാധ്യതയുടെയും ആരോഗ്യത്തിന്റെയും സാമൂഹിക തലത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമായ ചില കണ്ടെത്തലുകൾ ഇവയാണ് ഡിആർഎം അതിനാൽ ഞാൻ ഇത് ഒരു ചർച്ചയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഒരു കണ്ണ് തുറക്കുമെന്ന് ഞാൻ കരുതുന്നു